സ്വതന്ത്ര സ്ഥലത്തെ വൈദ്യുതകാന്തിക തരംഗങ്ങൾ II മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിനിന്ന് ഉത്ഭവിക്കുന്ന തരംഗ സമവാക്യം ഇതുവരെ നമ്മൾ വൈദ്യുതകാന്തിക തരംഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു കൂടാതെ മുൻ പ്രഭാഷണത്തിൽ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഫാരഡെയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അത് ഡെൽ ക്രോസ് E B യുടെ മൈനസ് പാർഷ്യൽ ഡെറിവേറ്റീവിന് തുല്യമാണ് അവ മാറുകയും പരസ്പരം സൃഷ്ടിക്കുകയും അത് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ വൈദ്യുതകാന്തികക്ഷേത്രം നിലനിർത്താൻ കഴിയുന്നതാണ് അതിനാൽ നമ്മൾ ഇവിടെ ഫാരഡെയുടെ നിയമം ഉപയോഗിക്കുന്നു കൂടാതെ ഇത് ഡിസ്പ്ലേസ്മെൻറ് കറൻറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രഭാഷണത്തിൽ മാക്സ്വെൽ എഴുതിയ രീതിയിൽ അവ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു കൂടാതെ ആ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഉപയോഗിച്ച് ഒരു തരംഗ സമവാക്യം കണ്ടെത്തി അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം അതിനാൽ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ചെയ്തതിനേക്കാൾ ഗണിതശാസ്ത്രപരമായി നമ്മൾ കൂടുതൽ കർശനമായി ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് പക്ഷേ മുൻ പ്രഭാഷണത്തിൽ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും അവ പരസ്പരം എങ്ങനെ മാറുന്നുവെന്നും ഉള്ളത് ഒരു ഭൌതിക രീതിയിൽ നമ്മൾ കണ്ടു ഈ പ്രഭാഷണത്തിൽ അതേ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സങ്കീർണ്ണമായ ഗണിതശാസ്ത്ര രീതിയിൽ കാണാൻ പോകുന്നു അതിനാൽ ആരംഭിക്കുന്നതിനായി നമുക്ക് മാക്സ്വെല്ലിന്റെ എല്ലാ സമവാക്യങ്ങളും സ്വതന്ത്ര സ്ഥലത്ത് എങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി എഴുതാം സ്വതന്ത്ര സ്ഥലത്ത് ചാർജും ചാർജ് സാന്ദ്രതയും ഇല്ല അതിനാൽ E യുടെ ഡൈവർജൻസ് 0 ആണ് E യുടെ കേൾ മൈനസ് പാർഷ്യൽ B by പാർഷ്യൽ t ക്ക് തുല്യമാണ് യഥാർത്ഥ വൈദ്യുതധാര ഇല്ലാത്തതിനാൽ കേൾ B എന്നാൽ നമുക്ക് mu 0 എപ്സിലോൺ 0 പാർഷ്യൽ E by പാർഷ്യൽ t അതായത് ഡിസ്പ്ലേസ്മെൻറ് കറൻറ് ആയിരിക്കും കൂടാതെ B യുടെ ഡൈവർജൻസ് 0 ആയിരിക്കും നമുക്ക് രണ്ട് കേൾ സമവാക്യങ്ങൾ നോക്കാം ഈ ഫാരഡെയുടെ നിയമ സമവാക്യത്തിന്റെ കേൾ എടുക്കാം ഇത് കേൾ ഓഫ് കേൾ E എന്നാൽ കേൾ B യുടെ മൈനസ് d by dt ക്ക് തുല്യമാകും എന്നിരുന്നാലും E യുടെ ഡൈവർജൻസിന്റെ ഗ്രേഡിയൻറ് മൈനസ് E യുടെ ലാപ്ലാസിയൻ എന്നത് മൈനസ് d by dt കേൾ B എന്നാൽ mu 0 എപ്സിലോൺ 0 പാർഷ്യൽ E by പാർഷ്യൽ t ക്ക് തുല്യമാണ് ആദ്യ സമവാക്യത്തിൽ നിന്ന് ഗോസിന്റെ നിയമപ്രകാരം ഈ പദം 0 ആണ് അതിനാൽ എനിക്ക് ഡെൽ സ്ക്വയർ E എന്നാൽ mu 0 എപ്സിലോൺ 0 d സ്ക്വയർ E by d t സ്ക്വയറിന് തുല്യമാണ് എന്ന് ലഭിക്കുന്നു

E 2E ∂t00E∂t 2E002Et2 പ്രത്യേകിച്ചും E യുടെ വ്യത്യാസം ഒരു ദിശയിൽ മാത്രമാണെങ്കിൽ അതായത് x ദിശ അപ്പോൾ എനിക്ക് പാർഷ്യൽ E by പാർഷ്യൽ x എന്നാൽ mu 0 എപ്സിലോൺ 0 d സ്ക്വയർ E by d t സ്ക്വയറിന് തുല്യമാണ് ഞാൻ ഈ E എഴുതുമ്പോൾ ഓരോ ഘടകങ്ങളും ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു നമുക്ക് ഇത് വ്യക്തമായി എഴുതാം എനിക്ക് d സ്ക്വയർ E x by d x സ്ക്വയർ എന്നാൽ mu 0 എപ്സിലോൺ 0 d സ്ക്വയർ E x by d t സ്ക്വയറിന് തുല്യമാണ് ഈ സമവാക്യം യഥാർത്ഥത്തിൽ അനാവശ്യമാണെന്ന് നമുക്ക് തോന്നാം കാരണം x ഘടകം ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല അടുത്തതായി d സ്ക്വയർ E y by d x സ്ക്വയർ എന്നാൽ mu 0 എപ്സിലോൺ 0 d സ്ക്വയർ E y by d t സ്ക്വയറിന് തുല്യമാണ് ഒടുവിൽ d സ്ക്വയർ E z by d x സ്ക്വയർ എന്നാൽ mu 0 എപ്സിലോൺ 0 d സ്ക്വയർ E z by d t സ്ക്വയറിന് തുല്യമാണ് ശ്രദ്ധിക്കുക ഇത് കൃത്യമായി ഒരു തരംഗ സമവാക്യം പോലെയാണ് ഇവിടെ ഈ അളവ് 1 ഓവർ c സ്ക്വയർ ആണ് അതിനാൽ ഇതിനെ ഇപ്പോൾ ഇത് d സ്ക്വയർ f by d x സ്ക്വയർ എന്നതിനെ 1 ഓവർ c സ്ക്വയർ d സ്ക്വയർ f by d t സ്ക്വയർ എന്ന് എഴുതാവുന്നതാണ് അതിനാൽ ഈ തരംഗത്തിൻറെ വേഗത c എന്നത് 1 ഓവർ എപ്സിലോൺ 0 mu 0 ന്റെ വർഗ്ഗ മൂലത്തിന് തുല്യം ആയിരിക്കുകയും E ഒരു തരംഗമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു B സമവാക്യത്തിനായി നമുക്ക് ഇതുതന്നെ ചെയ്യാം 2Exx2002Ext2 2Eyx2002Eyt2 2Ezx2002Ezt2c100 കൂടാതെ B സമവാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് നിങ്ങൾ B യുടെ കേൾ എടുത്ത് ആരംഭിക്കുക അത് mu 0 എപ്സിലോൺ 0 dE dt ക്ക് തുല്യമാണ് ഇരുവശത്തും കേൾ എടുക്കുക നമുക്ക് കേൾ ഓഫ് കേൾ B ആയി ലഭിക്കുന്നത് mu 0 എപ്സിലോൺ 0 d by d t കേൾ ഓഫ് E ക്ക് തുല്യമാണ് ഇത് B യുടെ ഡൈവർജൻസിന്റെ ഗ്രേഡിയൻറ് അത് പൂജ്യമാണ് മൈനസ് B യുടെ ലാപ്ലാസിയൻ എന്നത് mu 0 എപ്സിലോൺ 0 d by d t ഓഫ് മൈനസ് d B by d t എന്നാണ് അത് വീണ്ടും എനിക്ക് നൽകുന്നത് ഡെൽ സ്ക്വയർ B എന്നാൽ mu 0 എപ്സിലോൺ 0 d സ്ക്വയർ B dt സ്ക്വയറിന് തുല്യമാണ് ഇത് B ഫീൽഡിനുള്ള സമവാക്യമാണ് അതിനാൽ E B എന്നിവ ഒരു തരംഗം പോലെ സഞ്ചരിക്കുന്നു

B 2B00∂t B∂t 2B002Bt2 നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഹാർമോണിക് സമതല തരംഗങ്ങളുടെ ഒരു പ്രത്യേക പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അതിൽ E വെക്ടർ എന്നാൽ ഒരു വ്യാപ്തി E 0 സൈൻ 2 പൈ ഓവർ ലാംഡ x മൈനസ് 2 പൈ 𝜈 t എന്ന് നൽകാൻ പോകുന്നു എനിക്ക് അതിനെ E 0 സൈൻ k x മൈനസ് ഒമേഗ t ആയി എഴുതാൻ കഴിയും ഇവിടെ k 2 പൈ ഓവർ ലാംഡ ആണ് ഒമേഗ 2 പൈ 𝜈 ആണ് EE0 sin 2πx 2πνt E0 sin kx ωt k2π and ω2πν അതുപോലെ ഞാൻ B എഴുതാൻ പോകുന്നത് B 0 സൈൻ k x മൈനസ് ഒമേഗ t എന്നാണ് അതിനാൽ എനിക്ക് E എന്നത് E 0 സൈൻ k x മൈനസ് ഒമേഗ t ക്ക് തുല്യമാണ് കൂടാതെ B എന്നത് B 0 സൈൻ k x മൈനസ് ഒമേഗ t എന്നാണ് ഈ ആംപ്ലിറ്റ്യൂഡുകളെയും ഫീൽഡുകളെയും കുറിച്ച് ഇതുപോലുള്ള സമവാക്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് B യുടെ ഡൈവർജൻസ് 0 ആണെന്നതും E യുടെ ഡൈവർജൻസ് 0 ആണെന്നതും ആയ സമവാക്യം നോക്കാം നമുക്ക് ഈ സമവാക്യത്തിൽ E യുടെ ഡൈവർജൻസ് 0 ആണ് അതിനെ എനിക്ക് i d by d x dot E 0 സൈൻ k x മൈനസ് ഒമേഗ t പൂജ്യത്തിന് തുല്യമാണ് എന്ന് എഴുതാം മറ്റു ഘടകങ്ങളായ ആയ d by dy യും d by dz ഉം അപ്രത്യക്ഷമാകുന്നു കാരണം y z എന്നിവയിലുടനീളം ഞങ്ങൾ E 0 ഒരുപോലെയാണ് എടുത്തിട്ടുള്ളത് അതിനാൽ ഇത് നിങ്ങൾക്ക് യൂണിറ്റ് വെക്റ്റർ i ഡോട്ട് E 0 പൂജ്യം ആണെന്ന് ലഭിക്കുന്നു അതിന്റെ അർത്ഥം ഈ തരംഗം y z പ്രതലത്തിൽ ആണെന്നാണ് അതിനാൽ ഈ തരംഗം x ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ E ക്ക് ഘടകങ്ങളുണ്ടാകാം ഞാൻ പച്ചനിറം കൊണ്ട് E എഴുതുന്നുഇവിടെ E യ്ക്ക് y z എന്നീ ഘടകങ്ങളുണ്ടാകാം അതിനാൽ അവയെ നമുക്ക് E y E z എന്ന് എഴുതാം മറ്റൊന്നുമല്ല കാരണം E ഡോട്ട് i 0ആണ് ഇത് y ആണ് ഇത് z ആണ് അതുപോലെ B യുടെ ഡൈവർജൻസ് 0 ന് തുല്യമാണെങ്കിൽ എനിക്ക് i ഡോട്ട് ബി 0 പൂജ്യം ആണെന്ന് ലഭിക്കും അതിനാൽ എനിക്ക് B y B z എന്നീ ഘടകങ്ങൾ ഉണ്ട് അതിനാൽ E B എന്നിവ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ചാരത്തിൻറെ ദിശക്ക് ലംബമാണ് E0sin kx wt 0i E00 i E0 y z പ്രതലത്തിലാണ് B0 or i B00 or B ക്ക് By and Bz ഘടകങ്ങൾ മാത്രമേയുള്ളൂ മറ്റ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഉപയോഗിച്ച് E B എന്നിവ തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ ഇപ്പോൾ കണ്ടത് E y z പ്രതലത്തിൽ E 0 സൈൻ k x മൈനസ് ഒമേഗ t ആണ് കൂടാതെ B എന്നത് B 0 സൈൻ k x മൈനസ് ഒമേഗ t ആണ് B 0 നും E 0 നും ഇടയിലുള്ള ബന്ധം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു രണ്ട് കാര്യങ്ങളിലും അതായത് വൈദ്യുത കാന്തിക മണ്ഡലങ്ങളിലും ഞാൻ സൈൻ k x മൈനസ് ഒമേഗ t ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ പദങ്ങൾ രണ്ട് വശങ്ങളിലും ഒഴിവാകാത്തതായി നിങ്ങൾക്ക് കാണാനാകും അതിനാൽ k x മൈനസ് ഒമേഗ t യിൽ അവരുടെ ആശ്രയത്വം കൃത്യമായി തുല്യമായിരിക്കണം ഇനി നമുക്ക് സമവാക്യം നോക്കാം E യുടെ കേൾ സമയവുമായി ബന്ധപ്പെട്ട് B യുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് മൈനസിന് തുല്യമാണ് ഞാൻ E യുടെ കേൾ കണക്കുകൂട്ടുകയാണെങ്കിൽ ഇത് i j k d കൊണ്ട് d by d x d by dy d by dz എന്ന് എഴുതുന്നു വൈദ്യുത മണ്ഡലത്തിന്റെ x ഘടകം 0 ആണ് y ഘടകം E y 0 സൈൻ k x മൈനസ് ഒമേഗ t കൂടാതെ z ഘടകം E z 0 സൈൻ k x മൈനസ് ഒമേഗ t ആയിരിക്കും ഇവിടെ ഞാൻ കേൾ കണക്കു കൂട്ടുകയാണെങ്കിൽ അത് i ഘടകം തവണ 0 പ്ലസ് j ഘടകം തവണ 0 മൈനസ് d by d x E z 0 സൈൻ k x മൈനസ് ഒമേഗ t പ്ലസ് k ഘടകം d by d x E y 0 സൈൻ k x മൈനസ് ഒമേഗ t മൈനസ് 0 ആയിരിക്കും അതിനാൽ ഇത് മൈനസ് j E z 0 k കൊസൈൻ k x മൈനസ് ഒമേഗ t പ്ലസ് k യൂണിറ്റ് വെക്റ്റർ E y 0 k കൊസൈൻ k x മൈനസ് ഒമേഗ t ആണ് ഓർക്കുക ഇവിടെ ഈ k എന്നത് 2 പൈ ഓവർ ലാംഡ ആണ് ഒമേഗ എന്നാൽ 2 പൈ ഇരട്ടി ആവൃത്തി 𝜈 ആണ് ഇതിനെ k കൊസൈൻ k x മൈനസ് ഒമേഗ t മൈനസ് j E z 0 പ്ലസ് k യൂണിറ്റ് വെക്റ്റർ E y 0 എന്ന് എഴുതാം ഇതിനെ വീണ്ടും k കൊസൈൻ k x മൈനസ് ഒമേഗ t i ക്രോസ് E y 0 j പ്ലസ് E z 0 k എന്നെഴുതാം ഈ അവസാന പദം E വെക്റ്റർ 0 അല്ലാതെ മറ്റൊന്നുമല്ല Ei×0j0 ∂xEz0sin kx ωt k∂xEy0sin kx ωt 0kcoskx ωt jEz0kEy0kcoskx ωt iEy0jEz0kkcoskx ωt iE0 അതിനാൽ നമ്മൾ നേടിയത് അടുത്ത സ്ലൈഡിലേക്ക് പോകാം E യുടെ കേൾ എന്നാൽ k കൊസൈൻ k x മൈനസ് ഒമേഗ t i ക്രോസ് E 0 വെക്ടർ ആണ് അതുപോലെ d t യിലെ മൈനസ് dB ഒരു മൈനസ് ചിഹ്നമുള്ള B 0 d by d t സൈൻ k x മൈനസ് ഒമേഗ t ക്ക് തുല്യമാണ് ഇത് പ്ലസ് ഒമേഗ B 0 കൊസൈൻ k x മൈനസ് ഒമേഗ t ആകും ശ്രദ്ധിക്കുക നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്ഥല സമയ ആശ്രിതത്വം എങ്കിൽ k x മൈനസ് ഒമേഗ t വ്യത്യസ്തമായിരുന്നു അപ്പോൾ രണ്ട് സമവാക്യങ്ങളുടെ സ്ഥല സമയ ആശ്രിതത്വം എനിക്ക് തുല്യമാക്കാൻ കഴിയുമായിരുന്നില്ല കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ കേൾ E മൈനസ് d B d t ക്ക് തുല്യമാണെങ്കിൽ എനിക്ക് k കൊസൈൻ k x മൈനസ് ഒമേഗ t i ക്രോസ് E 0 എന്നത് ഒമേഗ B 0 വെക്റ്റർ കൊസൈൻ k x മൈനസ് ഒമേഗ t ക്ക് തുല്യമായി എഴുതാം കൊസൈൻ നൽകുന്ന ഈ ആശ്രിതത്വം ഇരുവശത്തും ഒരുപോലെയല്ലെങ്കിൽ സമവാക്യം ഒരിക്കൽ തൃപ്തിപ്പെടുത്താമായിരുന്നു പക്ഷേ ഇത് കൂടുതൽ തവണ ഫേസിൽ നിന്ന് പുറത്തുപോകും അതിനാൽ ഈ ആശ്രിതത്വം ഒന്നുതന്നെയായിരിക്കണം Ekcoskx ωt iE0 ∂B∂t B0∂tsinkx ωt ωB0coskx ωt മൊത്തം ഫലം നമുക്ക് ലഭിക്കുന്നത് B 0 വെക്റ്റർ എനിക്ക് i ക്രോസ് E 0 k ഓവർ ഒമേഗക്ക് തുല്യമാണ് k ഓവർ ഒമേഗ എന്നാൽ 1 ഓവർ c അല്ലാതെ മറ്റൊന്നുമല്ല ഇത് k എന്നാൽ 2 പൈ ഓവർ ലാംഡ കൂടാതെ ഒമേഗ 2 പൈ 𝜈 ആണെന്നും നിർവചിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ ഇപ്പോൾ നമുക്ക് ഉള്ളത് തരംഗം i ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ E വെക്ടറിന് ഇതുപോലുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ B വെക്റ്റർ i ക്രോസ് E ആയിരിക്കണം അത് ലംബമായിരിക്കണം അതിനാൽ E വെക്റ്റർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ അല്പം കട്ടിയുള്ളതാക്കട്ടെ തുടർന്ന് അതേ പ്രതലത്തിൽ B വെക്റ്റർ ലംബമായിരിക്കണം അതിനാൽ ഇത് ഒന്നുകിൽ ഈ വഴി അല്ലെങ്കിൽ ഈ വഴി ആയിരിക്കണം i ക്രോസ് E എനിക്ക് അത് നൽകുന്നു ഇപ്പോൾ അത് ഏത് വഴിക്ക് പോകും അതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഗുണിക്കാൻ കഴിയും E ക്രോസ് B വീണ്ടും എടുക്കുക ഇത് 1 ഓവർ c E 0 ക്രോസ് i ക്രോസ് E 0 ന് തുല്യമായിരിക്കും അത് എനിക്ക് 1 ഓവർ c i E 0 സ്ക്വയർ മൈനസ് 1 ഓവർ c i ഡോട്ട് E 0 E 0 നൽകുന്നു അതിനാൽ ഈ പദം 0 ആയിരിക്കും കാരണം i എന്ന സഞ്ചാര ദിശ E 0 ന് ലംബമാണ് അതിനാൽ E ക്രോസ് B എന്നാൽ i ആയിരിക്കണം അതായത് E ക്രോസ് B സഞ്ചാരത്തിന്റെ ദിശയിലായിരിക്കണം അതിനാൽ B തിരഞ്ഞെടുക്കുമ്പോൾ B ക്രോസ് E എനിക്ക് i നൽകുന്ന തരത്തിലുള്ള B ആയിരിക്കണം എടുക്കേണ്ടത് അതിനാൽ നമ്മൾ കാണുന്നത് സഞ്ചാരദിശയും വ്യാപ്തി വൈദ്യുത മണ്ഡലവും ലംബമാണ് സഞ്ചാര ദിശ കാന്തിക മണ്ഡലം എന്നിവ ലംബമാണ് പിന്നെ E ക്രോസ് B യുടെ അതേ ദിശയാണ് സഞ്ചാര ദിശയും അതിനാൽ ഇത് സഞ്ചാരത്തിന്റെ x ദിശയും E y ദിശയും ആണെങ്കിൽ അപ്പോൾ B z ദിശയിലായിരിക്കും മറുവശത്ത് തരംഗം മറ്റൊരു രീതിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതായത് അത് നെഗറ്റീവ് x ആക്സിസിലേക്ക് പോകുകയാണെങ്കിൽ തരംഗം ഈ രീതിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പോൾ E y E എന്നത് y ദിശയിലാണെങ്കിൽ B നെഗറ്റീവ് z ദിശയിലായിരിക്കും മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ഒടുവിൽ B 0 എന്നത് 1 ഓവർ c i ക്രോസ് E 0 ന് തുല്യമാണ് അതായത് B 0 ൻറെ മാഗ്നിറ്റ്യൂഡ് E 0 ൻറെ മാഗ്നിറ്റ്യൂഡ് ഓവർ C ക്ക് തുല്യമാണ് c സെക്കൻഡിൽ 3 തവണ 10 റെയ്സ്സ്ടു 8 മീറ്ററായി ഉയർത്തുന്നു അതിനാൽ S I യൂണിറ്റുകളിൽ അളക്കുമ്പോൾ വൈദ്യുതകാന്തിക തരംഗത്തിലെ കാന്തികക്ഷേത്രം വൈദ്യുത മണ്ഡലത്തേക്കാൾ വളരെ ചെറുതാണ്